മുൻ പ്രഭാഷണത്തിൽ IoT അല്ലെങ്കിൽ IIoT യുടെ പ്രധാന സാങ്കേതികവിദ്യകൾ നമ്മൾ കണ്ടു അത് അടിസ്ഥാനപരമായി സെൻസിംഗും ആക്ചുവേഷനും ആണ് സെൻസറുകൾക്ക് അത് പ്രവർത്തിക്കുന്ന പരിതസ്ഥിതിയുടെ സ്വഭാവസവിശേഷതകളിൽ ചില മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് താപനില സെൻസർ നോക്കാം താപനില സെൻസറിന് അത് പ്രവർത്തിക്കുന്ന പരിസ്ഥിതിയുടെ താപനില സവിശേഷതകളിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും സെൻസർ തിരിച്ചറിയുന്ന ഡാറ്റ കൈമാറുന്നതിന് വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്നു കണക്റ്റിവിറ്റി ഏറ്റവും പ്രധാനം ആണ് IoT യുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ലഭ്യമായ വ്യത്യസ്ത കണക്റ്റിവിറ്റി സാങ്കേതികവിദ്യകൾ പൊതുവേ IIoT നും ബാധകമാണ് IoT യ്ക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ചില ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ ഇവയാണ് ആദ്യത്തേത് IEEE 802 4 നിലവാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ZigBee 6LoWPAN Wireless HART Z Wave ISA 100 Bluetooth NFC RFID എന്നിങ്ങനെയുള്ള മറ്റ് പ്രോട്ടോക്കോളുകൾ ഉണ്ട് 4 IEEE സ്റ്റാൻഡേർഡ് IoT ൽ കണക്റ്റിവിറ്റി ആവശ്യങ്ങൾക്കായി വളരെയധികം ഉപയോഗിക്കുന്നു കൂടുതൽ പ്രോസസ്സിംഗിനായി തിരിച്ചറിഞ്ഞ ഡാറ്റ ഒരു നെറ്റ്വർക്കിലൂടെ ചില വിദൂര ഉപകരണങ്ങളിലേക്ക് അയയ്ക്കേണ്ടതാണ് ആ പ്രോസസിംഗിനെ അടിസ്ഥാനമാക്കി ആ പ്രോസസ്സറിൽ നിന്ന് ചില ആക്ചുവേറ്ററിലേക്ക് സിഗ്നൽ അയയ്ക്കേണ്ടതുണ്ട് അത് ഒരു മുറിയിലെ ലൈറ്റുകൾ ഓണാക്കുന്ന ചില ആക്റ്റുവേഷൻ ചെയ്യും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊസസ്സർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ചുവേറ്റർ വലതുവശത്തേക്ക് അയയ്ക്കാൻ ചില സിഗ്നൽ ആവശ്യമായി വന്നേക്കാം നമ്മൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ഈ വ്യത്യസ്ത പ്രോട്ടോക്കോളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് IoE ൽ കണക്റ്റിവിറ്റി വാഗ്ദാനം ചെയ്യുന്നതിനായി വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു നിലവാരമാണ് IEEE 802 IEEE 802 4 അടിസ്ഥാനപരമായി വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകൾ പോലുള്ള നെറ്റ്വർക്കുകൾക്കായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചട്ടക്കൂട് നൽകുന്നു വ്യക്തിഗത ഏരിയ നെറ്റ്വർക്കുകൾ എന്നാൽ വളരെ ചെറിയ അളവിലും ചെറിയ ശ്രേണിയിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് IEEE 802 4 അടിസ്ഥാനപരമായി ഈ ഭൌതികവും MAC പാളികളും എങ്ങനെ ഉപയോഗിക്കപ്പെടുമെന്ന് നിർവ്വചിക്കുന്നു ആശയവിനിമയം നടക്കാൻ പോകുന്ന ഫ്രീക്വൻസി ബാൻഡ് അയയ്ക്കാൻ പോകുന്നു ഫ്രെയിമുകളുടെ ഒഴുക്കുകൾ നിലനിർത്തണം IEEE 802 15 4 സ്റ്റാൻഡേർഡ് സാധാരണയായി കുറഞ്ഞ വൈദ്യുതി കുറഞ്ഞ ചിലവ് കുറഞ്ഞ വേഗത ആവശ്യകതകൾ എന്നിവയുള്ള ആശയവിനിമയത്തിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണയായി 75 മീറ്ററിൽ താഴെയായി വേർതിരിക്കുന്ന ഉപകരണങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം 10 മുതൽ 75 മീറ്റർ വരെ പക്ഷേ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് അവസ്ഥകൾ വ്യത്യസ്ത ശ്രേണികളിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്കറിയാം DSSS ഡയറക്ട് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം കോഡിംഗ് സ്കീം മോഡുലേഷൻ DSSS ഉപയോഗിക്കുന്നു ഘട്ടം ഷിഫ്റ്റ് കീയിംഗ് മോഡുലേഷൻ വിവരങ്ങളും അതിന്റെ വ്യത്യസ്ത വകഭേദങ്ങളും എൻകോഡ് ചെയ്യുന്നു ആദ്യത്തേത് BPSK മോഡുലേഷനാണ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിംഗ് ഇത് സാധാരണയായി 20 മുതൽ 40 Kbps വരെ ഡാറ്റ ട്രാൻസ്മിഷൻ നിരക്കും ഈ പ്രത്യേക ഫ്രീക്വൻസി ബാൻഡായ 868 915 മെഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡിനും ഉപയോഗിക്കുന്നു മറ്റൊന്ന് ഉണ്ട് ഇത് 2 4 ജിഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡിനായി ഉപയോഗിക്കുന്നു ഇത് OQPSK ആണ് ഓഫ്സെറ്റ് ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിംഗ് ഏകദേശം 250 കെബിപിഎസിന്റെ ഉയർന്ന ഡാറ്റാ ട്രാൻസ്മിഷൻ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഈ BPSK 20 മുതൽ 40 kbps വരെ വാഗ്ദാനം ചെയ്യുന്നു OQPSK 2 4 ജിഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡിൽ ഉയർന്ന ഡാറ്റ നിരക്കായ ഏകദേശം 250 kbps വാഗ്ദാനം ചെയ്യുന്നു ശബ്ദത്തിനും ഇടപെടലിനും വളരെയധികം സഹിഷ്ണുത പുലർത്തുന്ന ഒരു മാനദണ്ഡമാണ് DSSS ആത്യന്തികമായി DSSS ലിങ്ക് വിശ്വാസ്യത വാഗ്ദാനം ചെയ്യുന്നു ലിങ്ക് വിശ്വാസ്യത എന്നാൽ നിങ്ങൾ വിശ്വസനീയമായി അയയ്ക്കുന്നതും ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് 4 ന്റെ ചില സവിശേഷതകളാണ് അത് കാഴ്ചയുടെ വരിയിൽ പ്രവർത്തിക്കുന്നു അതാണ് ട്രാൻസ്മിഷന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം ശ്രേണി സാധാരണയായി ഏകദേശം 10 മുതൽ 75 വരെയാണ് MAC പ്രോട്ടോക്കോൾ സാധാരണയായി CSMA CA പ്രോട്ടോക്കോൾ കാരിയർ കൂട്ടിമുട്ടൽ ഒഴിവാക്കലുമായി ഒന്നിലധികം ആക്സസ് മനസ്സിലാക്കുകയും 802 4 ന് ആവശ്യമുണ്ട് കാരണം ഇത് കുറഞ്ഞ പവർ ഉള്ള സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കണം അതിനാൽ ലോ ഡ്യൂട്ടി സൈക്കിൾ ലോ ഡ്യൂട്ടി സൈക്കിൾ ഉത്പാദിപ്പിക്കാനോ ഉപയോഗിക്കാനോ ആവശ്യമായ ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു ലോ ഡ്യൂട്ടി സൈക്കിൾ എന്നാൽ സെൻസർ ചുരുങ്ങിയ സമയത്തേക്ക് സജീവമായിരിക്കും കാരണം അത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കും ഇത്തരത്തിലുള്ള പരിതസ്ഥിതിയിൽ 802 4 ഉപയോഗപ്രദമാണ് പിയർ ടു പിയർ ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി തുടങ്ങിയ നെറ്റ്വർക്ക് ടോപ്പോളജികളാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ടോപ്പോളജികൾ IEEE 802 15 4 ന്റെ അടിസ്ഥാന പതിപ്പ് 2003 പതിപ്പാണ് ഇവിടെ മോഡുലേഷൻ സ്കീമും ഡാറ്റാ നിരക്കുകളും 868 915 മെഗാഹെർട്സ് 2 4 ജിഗാഹെർട്സ് എന്നിങ്ങനെ വ്യത്യസ്ത ഫ്രീക്വൻസി ബാൻഡുകൾക്ക് നിശ്ചയിച്ചു 2006 ൽ അടുത്ത പതിപ്പ് വന്നു ഇത് ജനപ്രിയമായി അറിയപ്പെടുന്ന 802 15 4 ബി ഇത് മുൻ പതിപ്പിനെ അപേക്ഷിച്ച് ഉയർന്ന ഡാറ്റ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് അടുത്തത് 802 15 4a റേഞ്ച് ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കണക്റ്റിവിറ്റിയും ആശയവിനിമയവും വാഗ്ദാനം ചെയ്യുന്നതിനായി ചൈനയിലെ 780 മെഗാഹെർട്സ് ബാൻഡ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന 802 4c വന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി O QPSK അല്ലെങ്കിൽ MPSK മൾട്ടിപ്പിൾ ഫേസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിംഗ് മെക്കാനിസങ്ങൾ ഡാറ്റാ ട്രാൻസ്മിഷൻ ഡാറ്റാ നിരക്ക് 250 കെ IEEE 802 4d ജപ്പാനിൽ 980 മെഗാഹെർട്സ് ബാൻഡ് ആശയവിനിമയം നൽകുന്നു ഇത് വ്യത്യസ്ത ഡാറ്റ നിരക്കുകളുള്ള GFSK BPSK എന്നിവ ഉപയോഗിക്കുന്നു ഇ വേരിയന്റ് തുടങ്ങിയവ അതിനാൽ ഇവ 802 4 ന്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് പ്രധാനമായും 802 4 അടിസ്ഥാനമാക്കിയുള്ള ZigBee പ്രോട്ടോക്കോൾ പോലുള്ള വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉണ്ട് IoT കണക്റ്റിവിറ്റി വാഗ്ദാനം ചെയ്യുന്നതിനായി മീഡിയം റേഞ്ച് ആശയവിനിമയത്തിനുള്ള ഒരു ചട്ടക്കൂട് ZigBee പ്രോട്ടോക്കോൾ നൽകുന്നു ഇത് ഫിസിക്കൽ ലെയറിനെ നിർവ്വചിക്കുന്നു കൂടാതെ കുറഞ്ഞ ഡാറ്റ നിരക്കിൽ ഒന്നിലധികം ഉപകരണങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത സാധ്യമാക്കുന്ന MAC ലെയർ സവിശേഷതകൾ സിഗ്ബീ മൂന്ന് ആവൃത്തികളിൽ പ്രവർത്തിക്കുന്നു 868 മെഗാഹെർട്സ് 902 മുതൽ 928 മെഗാഹെർട്സ് 2 4 ജിഗാഹെർട്സ് സിഗ്ബീയിലെ ആയിരിക്കണമെന്നില്ല ദീർഘദൂരത്തേക്ക് ഒരു പരിധിവരെ ഡാറ്റ നിരക്ക് കുറച്ചാണ് സിഗ്ബീ പ്രവർത്തിക്കുന്നത് സ്റ്റാൻഡേർഡ് ട്രാൻസ്മിഷൻ ശ്രേണി സിഗ്ബീയിൽ ഏകദേശം 10 മുതൽ 70 മീറ്റർ വരെയാണ്

റിലേ എന്ന ആശയത്തിന്റെ സഹായത്തോടെ കൂടുതൽ ദൂരങ്ങളിൽ പാക്കറ്റ് ട്രാൻസ്മിഷനിൽ സിഗ്ബീ അടിസ്ഥാനപരമായി സഹായിക്കുന്നു ഒരു പാക്കറ്റ് ലഭിക്കുന്ന ഒരു ZigBee ഉപകരണം ഡാറ്റാ പാക്കറ്റ് അയൽവാസികളിലൊരാൾക്ക് അയയ്ക്കുന്നു ഉറവിടത്തിൽ നിന്നുള്ള മൾട്ടി ഹബ് പ്രക്രിയയിലൂടെ ആശയവിനിമയം ലക്ഷ്യസ്ഥാന നോഡിൽ ലഭിക്കും റിലേയിംഗ് ആശയത്തെ സിഗ്ബീ പിന്തുണയ്ക്കുന്നു ഫലത്തിൽ ആശയവിനിമയ ശ്രേണി വർദ്ധിപ്പിക്കാൻ കഴിയും സിഗ്ബീ മൊഡ്യൂളിന് 1 മെഗാവാട്ടിന് ചുറ്റും കുറഞ്ഞ വൈദ്യുതി ആശയവിനിമയം നൽകുന്നു കൂടാതെ അഡാപ്റ്റബിൾ ഡ്യൂട്ടി സൈക്കിൾ 20 മുതൽ 250 Kbps വരെ കുറഞ്ഞ ഡാറ്റ നിരക്കുകൾ 10 മുതൽ 100 മീറ്റർ വരെ കുറഞ്ഞ കവറേജ് അനുപാതം എന്നിങ്ങനെ വ്യത്യസ്ത സവിശേഷതകളുണ്ട് സ്റ്റാർ ടോപ്പോളജി പി 2 പി ക്ലസ്റ്റർ ട്രീ ടോപ്പോളജി മെഷ് ടോപ്പോളജി മെഷ് തുടങ്ങിയ വ്യത്യസ്ത നെറ്റ്വർക്ക് ടോപ്പോളജികളെ സിഗ്ബീ പിന്തുണയ്ക്കുന്നു സിഗ്ബീ പ്രോട്ടോക്കോൾ മൂന്ന് തരം നോഡുകൾ നിർവ്വചിക്കുന്നു കോർഡിനേറ്റർ നോഡ് റൂട്ടർ നോഡ് എൻഡ് ഡിവൈസുകൾ നെറ്റ്വർക്കിന്റെ പ്രാരംഭം പരിപാലനം നിയന്ത്രണം എന്നിവയുടെ പ്രശ്നങ്ങൾ കോർഡിനേറ്റർ ശ്രദ്ധിക്കുന്നു ഓരോ നെറ്റ്വർക്കിനും സാധാരണയായി ഒരു കൺട്രോളർ ഉണ്ട് ലഭിച്ച ഡാറ്റാ പാക്കറ്റുകൾ കൈമാറാൻ മൾട്ടി ഹോപ്പ് റൂട്ടിംഗിനായി സാധാരണയായി ഉപയോഗിക്കുന്ന റൂട്ടറുകളുണ്ട് കൂടുതൽ റൂട്ടിംഗിന് സംഭാവന ചെയ്യാത്ത ഡാറ്റയുടെ സ്വീകർത്താക്കളാണ് അവസാന ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി ആണ് ഒരു കോർഡിനേറ്റർ പൂജ്യം അല്ലെങ്കിൽ കൂടുതൽ എൻഡ് ഉപകരണങ്ങൾ ഉണ്ട് മെഷ് ട്രീ ടോപ്പോളജികൾ എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ നിരവധി റൂട്ടറുകളും അവസാന ഉപകരണങ്ങളും പരിപാലിക്കുന്ന ഒരു കോർഡിനേറ്റർ ഉണ്ട് ഒരു ക്ലസ്റ്റർ ട്രീ നെറ്റ്വർക്ക് ടോപ്പോളജിയിലെ ഓരോ ക്ലസ്റ്ററിലും ഉപയോഗിക്കുന്നത് നിരവധി ഇല നോഡുകളിലൂടെ ഒരു കോർഡിനേറ്റർ ഉൾപ്പെടുന്നു അതിനാൽ ചില ക്ലസ്റ്ററുകളുണ്ട് ഒരു വൃക്ഷ തരത്തിലുള്ള ഘടനയുണ്ട് മുഴുവൻ നെറ്റ്വർക്കും ആരംഭിക്കുന്ന പാരന്റ് കോർഡിനേറ്ററുമായി കോർഡിനേറ്റർമാർ ബന്ധിപ്പിച്ചിരിക്കുന്നു സിഗ്ബീ സ്റ്റാൻഡേർഡ് രണ്ട് വേരിയന്റുകളിലാണ് വരുന്നത് സാധാരണ സിഗ്ബീ പ്രോ വേരിയന്റ് പ്രോ ആകർഷകമാണ് കാരണം ഇത് നിങ്ങൾക്ക് സ്കേലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ അറിയാം ZigBee pro മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു മെച്ചപ്പെട്ട പ്രകടനം നിരവധി റൂട്ടിംഗ് സ്കീം ഉപയോഗിക്കുന്നു സിഗ്ബീയിൽ ഫിസിക്കൽ പിന്നെ MAC SSCS LLC നെറ്റ്വർക്ക് ലെയർ എന്നിങ്ങനെ വ്യത്യസ്ത പാളികൾ ഉണ്ട് ഇന്റർനെറ്റിനായി പരമ്പരാഗത OSI ഉപയോഗിക്കുന്നു ആപ്ലിക്കേഷൻ വരെ ഫിസിക്കൽ ലെയറിന് ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട് 6LoWPAN ഇത് എന്താണ് 6 ഒരു സംഖ്യാ മൂല്യമുള്ള സംഖ്യാ മൂല്യത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രോട്ടോക്കോളിന്റെ പേര് IPv6 ലെ 6 എന്ന അക്ഷരത്തെ 6 സൂചിപ്പിക്കുന്നു 6LoWPAN വയർലെസ് വ്യക്തിഗത ഏരിയ നെറ്റ്വർക്കുകളിൽ IPv6 ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് വ്യക്തിഗത ഏരിയ നെറ്റ്വർക്ക് വയർലെസ് ഒന്ന് കുറഞ്ഞ പവർ ഉണ്ട് ഇത് 6LoWPAN ഒപ്റ്റിമൈസ് ചെയ്യുന്നു കുറഞ്ഞ പവർ ലോസി നെറ്റ്വർക്കുകളിൽ IPv6 പാക്കറ്റ് ട്രാൻസ്മിഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു 6LoWPAN രണ്ട് ആവൃത്തികളിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് 240 ആണ് ക്ഷമിക്കണം 2400 മുതൽ 2483 5 മെഗാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡ് ലോകമെമ്പാടും മറ്റൊന്ന് വടക്കേ അമേരിക്കയിലാണ് 902 മുതൽ 929 മെഗാഹെർട്സ് ബാൻഡ് IEEE 802 4 നിലവാരമില്ലാത്ത CSMACA MAC പ്രോട്ടോക്കോൾ മോഡിൽ 6LoWPAN ഡാറ്റാ ഫോർമാറ്റ് 802 4 ലോവർ ലെയർ സിസ്റ്റത്തിനുള്ളിൽ അനുയോജ്യമായി പരിവർത്തനം ചെയ്യുന്നു IPv6 അടിസ്ഥാനപരമായി 1280 ബൈറ്റുകൾ നീളമുള്ള MTU ഉൾപ്പെടുന്നു അതേസമയം 802 15 4 127 ബൈറ്റുകൾ വരെ ഒരു പാക്കറ്റ് വലുപ്പം അനുവദിക്കുന്നു അതിനാൽ ഒരു വലിയ പൊരുത്തക്കേട് ഉണ്ട് 1280 IPv6 ഉം 802 4 ഉം അനുവദിച്ചിരിക്കുന്നു 127 ബൈറ്റുകൾ മാത്രം അനുവദിക്കുന്നു MAC നും നെറ്റ്വർക്ക് ലെയറിനും ഇടയിൽ അവതരിപ്പിക്കുന്ന അഡാപ്റ്റേഷൻ ലെയർ എന്നറിയപ്പെടുന്ന ഒരു ലെയറിന്റെ സഹായത്തോടെ ഇത് നേടാനാകും ഇത് പാക്കറ്റ് വിഘടിക്കാൻ സഹായിക്കുന്നു 1280 127 എന്നീ അളവുകളിൽ പൊരുത്തക്കേട് ഉള്ളതിനാൽ വിഘടനം നടത്തേണ്ടതുണ്ട് ഹെഡറിന്റെ കംപ്രഷൻ ഡാറ്റാ ലിങ്ക് ലെയറിന്റെ റൂട്ടിംഗ് പോലുള്ള മറ്റ് ചില കാര്യങ്ങളിൽ ഈ അഡാപ്റ്റേഷൻ ലെയർ സഹായിക്കും അതിനാൽ ഈ പ്രത്യേക അഡാപ്റ്റേഷൻ ലെയറിന്റെ സഹായത്തോടെ ഡാറ്റാ ലിങ്ക് ലെയറിന് മുകളിലുള്ള റൂട്ടിംഗിന് റൂട്ടിംഗ് സഹായിക്കുന്നു അതിനാൽ IEEE 802 4 ഫ്രെയിമിലേക്ക് കേടുകൂടാത്ത IPv6 പാക്കറ്റ് ഘടിപ്പിക്കാൻ ഫ്രാഗ്മെന്റേഷൻ ആവശ്യമാണ് അതിനാൽ ഈ ഫ്രാഗ്മെന്റേഷൻ ഹെഡർ 2048 ബൈറ്റുകൾ പാക്കറ്റ് വലുപ്പം അനുവദിക്കുന്നു വിഘടനവും 128 ബൈറ്റുകളും പുനasസംഘടിപ്പിച്ച് IPv6 ഫ്രെയിമുകൾ 802 4 റേഡിയോ ചാനലിൽ നിരവധി ചെറിയ ശകലങ്ങളായി കൈമാറുന്നു IPv6 6LoWPAN പ്രോട്ടോക്കോൾ പരിപാലിക്കും അഡാപ്റ്റേഷൻ ലെയർ അടിസ്ഥാനപരമായി വിഘടനം കൂടാതെ പുനasസംഘടിപ്പിക്കൽ എന്നിവയെ പരിപാലിക്കും ഹെഡർ കംപ്രഷൻ ട്രാൻസ്മിഷൻ ഓവർഹെഡ് കാര്യക്ഷമമായി കൈമാറാൻ അനുവദിക്കുകയും ചെയ്യുന്നു IPv6 വിലാസങ്ങൾ 6LoWPAN ൽ രണ്ട് തരങ്ങളായി ചുരുക്കിയിരിക്കുന്നു 8 ബൈറ്റ് UDP തലക്കെട്ടും 40 ബൈറ്റ് IPv6 തലക്കെട്ടും 6LoWPAN ൽ DHCP ഉപയോഗിക്കുന്നില്ല ഡാറ്റ ലിങ്ക് ലെയർ റൂട്ടിംഗ് രണ്ട് സ്കീമുകളായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഫോർവേഡ് ഡാറ്റ പാക്കറ്റുകൾക്ക് നൽകാൻ ലിങ്ക് ലെയർ വിലാസങ്ങൾ ഉപയോഗിക്കുന്ന മെഷ് ആണ് മറ്റൊന്ന് റൂട്ട് ഓവർ ആണ് അതിനാൽ റൂട്ട് ഓവർ നെറ്റ്വർക്ക് ലെയർ IP വിലാസം ഉപയോഗിക്കുന്നു നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം ഈ AES 128 ലിങ്ക് ലെയർ സുരക്ഷയാണ് ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ലെയർ പിന്നെ MAC ലെയർ 6LoWPAN ആയ അഡാപ്റ്റേഷൻ ലെയർ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ ആപ്ലിക്കേഷൻ ലെയർ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നു ഈ റൂട്ടിംഗിന് കീഴിലുള്ള മെഷിന്റെ വ്യത്യാസം അഡാപ്റ്റേഷൻ ലെയറിലാണ് ചെയ്യുന്നത് വയർലെസ് HART പ്രോട്ടോക്കോളായ മറ്റൊരു പ്രോട്ടോക്കോൾ പ്രത്യേകിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു HART ന്റെ പൂർണ്ണ രൂപം ഹൈവേ അഡ്രസ്സബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസറാണ് ഇത് IEEE 802 4 നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് 4 ജിഗാഹെർട്സ് ഐഎസ്എം ബാൻഡിൽ 250 കെബിപിഎസ് വരെയുള്ള ഡാറ്റ നിരക്കുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് 11 മുതൽ 26 വരെ ചാനലുകൾ രണ്ട് മെഗാഹെർട്സ് ഇടവിട്ടുള്ള രണ്ട് ചാനലുകൾക്കിടയിൽ ഉണ്ട് ഒരേ ചാനൽ തുടർച്ചയായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് HART വയർലെസ് പ്രോട്ടോക്കോൾ നിർബന്ധമാക്കുന്നു IEEE 802 15 4 അടിസ്ഥാനമാക്കിയുള്ള DSSS ആണ് വയർലെസ് HART ന്റെ ഈ സവിശേഷതകൾ ഉപയോഗിക്കുന്നത് വയർലെസ് ഹാർട്ട് പ്രോട്ടോക്കോൾ ഒരു പാക്കറ്റ് അയയ്ക്കുമ്പോഴെല്ലാം ചാനൽ ഹോപ്പിംഗ് പിന്തുടരുന്നു കൂടാതെ മോഡുലേഷൻ സ്കീം ഉപയോഗിക്കുന്നത് OQPSK ഓഫ്സെറ്റ് ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിംഗ് ആണ് കൂടാതെ ട്രാൻസ്മിഷൻ പവർ ഏകദേശം 10 dBm ആണ് 127 ബൈറ്റുകൾ അനുവദനീയമായ പേലോഡ് വലുപ്പം പോലുള്ള മറ്റ് സവിശേഷതകളും ഉണ്ട് ഉപയോഗിച്ച MAC പ്രോട്ടോക്കോൾ TDMA ആണ് കൂട്ടിമുട്ടലില്ലാത്തതും നിർണായകവുമായ ആശയവിനിമയം നൽകാൻ ഈ ടിഡിഎംഎ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ആശയവിനിമയം നടക്കുന്ന വ്യത്യസ്ത സമയ സ്ലോട്ടുകൾ ഉണ്ട് അതിനാൽ കൂട്ടിയിടി ഇല്ല ഒരു സെക്കൻഡിൽ തുടർച്ചയായി 100 സമയ സ്ലോട്ടുകളുടെ ഒരു ശ്രേണി സൂപ്പർ ഫ്രെയിം എന്നറിയപ്പെടുന്ന ഒന്നായി തരംതിരിച്ചിരിക്കുന്നു ഈ സൂപ്പർ ഫ്രെയിം ആശയം വളരെ പ്രധാനമാണ് വ്യത്യസ്ത ടൈം സ്ലോട്ടുകളുള്ള ഒന്നിലധികം സൂപ്പർ ഫ്രെയിമുകളെ ഉപകരണങ്ങൾ പിന്തുണയ്ക്കുന്നു ബാൻഡ്വിഡ്ത്തിന്റെ ആവശ്യമനുസരിച്ച് അധിക സൂപ്പർ ഫ്രെയിമുകൾ പ്രവർത്തനക്ഷമമാക്കുകയും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിമിലും ഒരു തവണയെങ്കിലും എല്ലായ്പ്പോഴും പ്രവർത്തനക്ഷമമാക്കുന്നു ഏത് സന്ദേശത്തിനും ആശയവിനിമയം അനുവദിച്ച സമയ സ്ലോട്ടിൽ സംഭവിക്കുന്നു അതിനാൽ വയർലെസ് HART അടിസ്ഥാനപരമായി നക്ഷത്രത്തെയും മെഷ് ടോപ്പോളജിയെയും പിന്തുണയ്ക്കുന്നു വയർലെസ് HART ന്റെ ഈ സവിശേഷതകളിൽ ചിലത് ഇവയാണ് നമ്മൾ കണ്ടതുപോലെ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ വയർലെസ് HART ഉപയോഗത്തിന് വളരെ ആകർഷകമാണ് ഇത് IEEE 802 15 4 നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്ക് ഇത് വളരെ ആകർഷകമായ പ്രോട്ടോക്കോളാണ് വയർലെസ് HART മറ്റ് പ്രോട്ടോക്കോളുകൾ സ്റ്റാൻഡേർഡ് 802 4 എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവ ചില പരാമർശങ്ങളാണ് ഈ പ്രഭാഷണം നിങ്ങളെ ഈ പ്രോട്ടോക്കോളുകൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ എന്നാൽ ഈ തരത്തിലുള്ള ധാരണ തുടർ പ്രഭാഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ മതിയാകും പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ ഈ ലിസ്റ്റുചെയ്തിരിക്കുന്ന ചില റഫറൻസുകൾ ഇവയാണ് അവ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാനും കൂടുതൽ ആഴത്തിൽ ഒരു ധാരണ നേടാനും കഴിയും